മേത്തേഡ് ഓഫ് ഇമേജസ് I ഗ്രൌൻഡഡ് മെറ്റാലിക് പ്ലെയിന് മുൻപിലുള്ള പോയിന്റ് ചാർജ് I മുൻപിലത്തെ ലെക്ച്ചറിൽ പോയിസ്സോൻസ് ലാപ്ലേസ് ഇക്വേഷനുകൾ ചർച്ച ചെയ്യുന്ന സമയത്ത് നാം വളരെ കാര്യങ്ങൾ കണ്ടു പക്ഷെ നാം പ്രത്യേകമായി കണ്ടത് പോയിസ്സോൻസ് ഇക്വേഷന് നൽകിയിട്ടുള്ള ഒരു ചാർജ് ഡിസ്ട്രിബ്യുഷനും ബൌണ്ടറി കണ്ടിഷനും ഉള്ളപ്പോൾ യൂണിക് സൊല്യൂഷൻ ഉണ്ട് എന്നതാണ് എനിക്ക് ഈ സൊല്യൂഷൻ യൂണിക്നെസ് പരിശോധിക്കുവാൻ ആരെങ്കിലും അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റു മാർഗ്ഗമുണ്ടെങ്കിൽ എന്നാണ് ഇത് കൊണ്ട് അർത്ഥമാക്കുന്നത് എനിക്ക് ഒരു ബൌണ്ടറി കണ്ടിഷനും വെളിയിലുള്ള ഏതാനും ചാർജുകളും നൽകിയിട്ടുണ്ടെങ്കിൽ വോളിയം വെളിയിലായിരിക്കും മറിച്ച് ഇവ ഉള്ളിലാണെങ്കിൽ വോളിയം ഉള്ളിലായിരിക്കും ഈ സാഹചര്യത്തിൽ ബൌണ്ടറിയിലെ പൊട്ടൻഷ്യലും വെളിയിലെ ചാർജുകളും നൽകിയിരിക്കുന്നു എനിക്ക് എങ്ങിനെയെങ്കിലും ഒരു സൊല്യൂഷൻ നല്കാൻ കഴിയുമെങ്കിൽ ബൌണ്ടറി കണ്ടിഷൻ പാലിക്കുന്ന ഒരു സൊല്യൂഷൻ ഈ പോയിസ്സോൻസ് ഇക്വേഷന് നല്കാൻ സാധിക്കും ഇതല്ലാതെ വേറെ സൊല്യൂഷൻ ഉണ്ടാകുകയില്ല ഞാൻ ഇത് ഉറപ്പിച്ച് പറയാം മറ്റാരെങ്കിലും അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഇത് പരിശോധിച്ച് ശരിയാണെന്ന് പറഞ്ഞാൽ ഇത് യൂണിക് സൊല്യൂഷൻ ആണ് ഇതാണ് നാം പൊട്ടൻഷ്യൽ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മെത്തേഡ് ഓഫ് ഇമേജസിൽ ഉപയോഗിക്കുന്നത് ഞാൻ ഈ ലെക്ച്ചറിൽ രണ്ട് ഉദാഹരണങ്ങൾ നൽകാം ഒന്നാമത്തെ ഉദാഹരണം ഒരു ഗ്രൌൻഡഡ് മെറ്റാലിക് പ്ലെയിന് മുൻപിലുള്ള ഒരു ചാർജ് ആണ് പൊട്ടൻഷ്യൽ 0 ഉള്ള ഒരു ഇൻഫിനിറ്റ് മെറ്റാലിക് പ്ലെയ്ൻ ആണ് ഇനി ഞാൻ പ്രോബ്ലം വിശദീകരിക്കാം പ്രോബ്ലം എന്തെന്നാൽ ഈ മെറ്റാലിക് പ്ളേനിന്റെ മുൻപിൽ ഞാൻ ഒരു ചാർജ് q വയ്ക്കുന്നു Z0 ദൂരത്തിൽ എല്ലായിടത്തും പൊട്ടൻഷ്യൽ എന്തായിരിക്കും ഈ പ്ലെയ്ൻ ഗ്രൌണ്ട് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക ഇത് ഇൻഫിനിറ്റി വരെ നീളുന്ന 0 പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബൌണ്ടറിയാണ് അപ്പോൾ ഞാൻ ബൌണ്ടറി ആകമാനമുള്ള പൊട്ടൻഷ്യൽ നൽകി ക്കഴിഞ്ഞു എനിക്കറിയേണ്ടത് X Y Z പോയിന്റിലെ പൊട്ടൻഷ്യൽ V ആണ് ഞാൻ ഇവിടെ Z0 എഴുതിക്കഴിഞ്ഞു ഇത് z ദിശയിലാണെന്ന് വിചാരിക്കുക കൺവെൻഷനൽ ആയുള്ള അർത്ഥത്തിൽ ഇത് ബൌണ്ടറിയാണ് ഇത് z ആക്സിസ് ആണ്ഇവിടെ Z0 അകലത്തിൽ ചാർജ് q ആണ് എനിക്ക് വേണ്ടത് പൊട്ടൻഷ്യൽ Vxyz ആണ് ഈ വോളിയുമിൽ ഞാൻ ഇത് വേറെ നിറത്തിൽ അടയാളപ്പെടുത്തട്ടെ എന്തെന്നാൽ ഇത് വോളിയുമിന്റെ ബൌണ്ടറി ആണ് ഈ വോളിയം ന് ഉള്ളിൽ പോയിസ്സോൻസ് ഇക്വേഷൻ ഡെൽ സ്ക്വയർ V സമം മൈനസ് റോ ബൈ എപ്സിലോൺ 0 ആണ് പോയിന്റ് ചാജിന് റോ എന്നത് q ഡെൽറ്റ ആർ മൈനസ് z 0z ബൈ എപ്സിലോൺ 0 കൂടാതെ z സമം 0 യിൽ V 0 ആണ് ഈ z 0 പ്ലെയ്ൻ വെളിയിൽ എല്ലാം r സമം ഇൻഫിനിറ്റി വരെ ആണ് ഞാൻ ഇതിന് സൊല്യൂഷൻ കാണാൻ ആഗ്രഹിക്കുന്നു ഒരു വഴി പോയിസ്സോൻ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നതാണ് മറ്റേത് എനിക്ക് ബൌണ്ടറി കണ്ടിഷൻ പാലിക്കുന്ന തരത്തിലുള്ള ഒരു ചാർജ് കോൺഫിഗുറേഷൻ കണ്ടു പിടിക്കാം എനിക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാനെന്റെ സൊല്യൂഷൻ കണ്ടെത്തിക്കഴിഞ്ഞു അതാണ് നാം മെത്തേഡ് ഓഫ് ഇമേജസിൽ ചെയ്യുന്നത് ഇപ്പോൾ ഒന്ന് രണ്ടു പോയിന്റുകൾ ഒന്ന് ഞാൻ x y പ്ളേനിൽ എവിടെയാണ് എന്നത് അനുസരിച്ചല്ല പൊട്ടൻഷ്യൽ ഇതിന് സിലിണ്ടറിക്കൽ സിമ്മെട്രി ഉണ്ട് ഇത് ദൂരം x സ്ക്വയർ പ്ലസ് y സ്ക്വയർ നെ ആശ്രയിച്ചിരിക്കുന്നു കൂടാതെ തീർച്ചയായും z 0 യെയും ആശ്രയിച്ചിരിക്കുന്നു നമുക്കീ പ്ലെയ്ൻ ഒന്ന് കൂടി നോക്കാം ഒരു നിമിഷം കഴിഞ്ഞ മെത്തേഡ് ഓഫ് ഇമേജസ് എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം ഇവിടെ ചാർജ് q ആണ് കൂടാതെ ബൌണ്ടറിയിൽ പൊട്ടൻഷ്യൽ 0 ആയിരിക്കണം ഈ പ്ലാനിനു പിറകിലുള്ള ചാർജ് മൈനസ് q ഇതേ ദൂരത്തിൽ ആണെങ്കിൽ q എനിക്ക് ബൌണ്ടറിയിലെ പൊട്ടൻഷ്യൽ ഒന്ന് ബൈ നാലു പൈ എപ്സിലോൻ 0 ഗുണം q ബൈ സ്ക്വയർ റൂട്ട് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z മൈനസ് z 0 സ്ക്വയർ ഈ ചാർജ് x സമം y സമം 0 ആകയാൽ z മൈനസ് z 0 സ്ക്വയർ z സമം z 0 യിൽ ആണ് എന്തെന്നാൽ z സമം 0 ത്തിൽ ഉള്ള ഈ ബൌണ്ടറി മൈനസ് q എന്നത് ഒന്ന് ബൈ നാലു പൈ എപ്സിലോൻ 0 ഗുണം q ബൈ സ്ക്വയർ റൂട്ട് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z പ്ലസ് z 0 സ്ക്വയർ z സമം 0 ആണ് അപ്പോൾ മേൽപ്പറഞ്ഞ രണ്ടു പൊട്ടൻഷ്യലുകൾ സമവും വിപരീത ചിഹ്നങ്ങളിലും ആകയാൽ z സമം 0 യിൽ V 0 ആയിരിക്കും z 0 യിൽ V 0 ആണെങ്കിൽ അതിനർത്ഥം ഈ രണ്ടു ചാർജുകൾ മൈനസ് ക്യൂവും പ്ലസ് ക്യൂവും എനിക്ക് ആവശ്യമായ ബൌണ്ടറി കണ്ടിഷൻ നൽകുന്നു തീർച്ചയായും വളരെ ദൂരെ ആർ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ രണ്ടു ചാർജുകളും എനിക്ക് 0 പൊട്ടൻഷ്യൽ നൽകുന്നു അപ്പോൾ ആർ സമം ഇൻഫിനിറ്റിയിലെ കണ്ടിഷനുകൾ പാലിക്കപ്പെടുന്നു z സമം 0 യിൽ പോലും ബൌണ്ടറി കണ്ടിഷൻ പാലിക്കപ്പെടുന്നു എന്നതാണ് വസ്തുത ഞാൻ പൊട്ടൻഷ്യൽ എഴുതുമ്പോൾ ഇവിടെ പ്ലസ് q ഇവിടെ q ഇതിനർത്ഥം മുകളിലുള്ള റീജിയനിൽ പ്ലസ് ക്യൂവും മൈനസ് ക്യൂവും കാരണമുള്ള പൊട്ടൻഷ്യൽ Vxyz ആണ് അപ്പോൾ ഡെൽ സ്ക്വയർ V സമം ഡെൽ സ്ക്വയർ V q പ്ലസ് ടെലസ്ക്വയർ V മൈനസ് ക്യൂ പക്ഷെ മുകളിലെ റീജിയനിൽ ഇത് 0 ആണ് എന്തെന്നാൽ ആ റീജിയനിൽ ഡെൽറ്റ ഫങ്ഷൻ 0 ആണ് ഇത് അതേ പോയിസ്സോൻ ഇക്വേഷൻ പാലിക്കുന്നു ഡെൽ സ്ക്വയർ V q V z ഇവയും ബൌണ്ടറി കണ്ടിഷൻ പാലിക്കുന്നു അപ്പോൾ ഈ V q പ്ലസ് V മൈനസ് q ശരിയായ പോയിസ്സോൻ ഇക്വേഷനും ബൌണ്ടറി കണ്ടിഷനും പാലിക്കുന്നു അതിനർത്ഥം യൂണിക്നെസ്സ് തിയറം അനുസ്സരിച്ച് ഇത് തന്നെയാണ് ശരിയായ സൊല്യൂഷൻ അപ്പോൾ നാം സൊല്യൂഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു ഒരു ഗ്രൌൻഡഡ് മെറ്റാലിക് പ്ലെയിന് മുൻപിലുള്ള ഒരു ചാർജിന് ഈ റീജിയണിലെ പൊട്ടൻഷ്യൽ ചാർജ് ക്യൂവും മൈനസ് ക്യൂവും കാരണമുള്ള V യുടെ സമ്മേഷൻ ആയി എഴുതാം ഇതാണ് സൊല്യൂഷൻ ഇതാണ് മെത്തേഡ് ഓഫ് ഇമേജസ് ന്റെ പിറകിലുള്ള ആശയം അതായത് ഒരു ഇമേജ് ചാർജ് എവിടെയെങ്കിലും സ്ഥാപിച്ച് സൊല്യൂഷൻ കണ്ടു പിടിക്കുക അതിനാൽ എനിക്ക് പൊട്ടൻഷ്യൽ നെ ഒന്ന് ബൈ നാലു പൈ എപ്സിലോൺ 0 എന്ന് എഴുതാം q രണ്ടിനും പൊതുവാകയാൽ ഞാൻ q വെളിയിൽ എഴുതാം അപ്പോളിത് q ബൈ നാലു പൈ എപ്സിലോൺ 0 ഗുണം ഒന്ന് ബൈ സ്ക്വയർ റൂട്ട് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z മൈനസ് z 0 ഹോൾ സ്ക്വയർ മൈനസ് ഇമേജ് മൂലം ഒന്ന് ബൈ സ്ക്വയർ റൂട്ട് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z പ്ലസ് z 0 ഹോൾ സ്ക്വയർ ഇതാണ് പൊട്ടൻഷ്യൽ ഞാൻ പൊട്ടൻഷ്യൽ കണ്ടു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കിട്ടും ഇലക്ട്രിക്ക് ഫീൽഡ് ഇ x y z കാണണമെങ്കിൽ അത് മൈനസ് ഗ്രേഡിയൻറ് V ആണ് സർഫേസിലെ ചാർജ് കാണണമെങ്കിൽ അത് ഗോസ്സ് നിയമം ഉപയോഗിച്ച് ഇലക്ട്രിക്ക് ഫീൽഡിൽ നിന്നും കണ്ടു പിടിക്കാം അപ്പോൾ നമുക്കത് ചെയ്യാം നമുക്കിതുപയോഗിച്ച് മെറ്റൽ സർഫേസിലെ ചാർജ് കണ്ടുപിടിക്കാം V x y z എന്നത് q ബൈ നാലു പൈ എപ്സിലോൺ 0 ഗുണം ഒന്ന് ബൈ സ്ക്വയർ റൂട്ട് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z മൈനസ് z 0 ഹോൾ സ്ക്വയർ മൈനസ് ഇമേജ് മൂലം ഒന്ന് ബൈ സ്ക്വയർ റൂട്ട് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z പ്ലസ് z 0 ഹോൾ സ്ക്വയർ അപ്പോൾ ചെറിയ വ്യത്യസത്തോടെ ഇലക്ട്രിക്ക് ഫീൽഡ് എഴുതുക ഇവിടെ x സ്ക്വയറും y സ്ക്വയറും ഉള്ളതിനാൽ നമുക്ക് സിലിണ്ടറിക്കൽ കോ ഓർഡിനേറ്റ് ഉപയോഗിക്കാം s സ്ക്വയർ എന്ന് എഴുതാം അപ്പോൾ ഞാനിത് q ബൈ നാലു പൈ എപ്സിലോൺ 0 ഗുണം ഒന്ന് ബൈ സ്ക്വയർ റൂട്ട് s സ്ക്വയർ പ്ലസ് z മൈനസ് z 0 ഹോൾ സ്ക്വയർ മൈനസ് ഒന്ന് ബൈ സ്ക്വയർ റൂട്ട് s സ്ക്വയർ പ്ലസ് z പ്ലസ് z 0 ഹോൾ സ്ക്വയർ എന്നെഴുതാം ഇലക്ട്രിക്ക് ഫീൽഡ് Exyz ഡി V ബൈ ഡി z എന്നത് മൈനസ് q ബൈ നാലു പൈ എപ്സിലോൺ 0 ഗുണം മൈനസ് ഒന്ന് ബൈ രണ്ട് ഗുണം രണ്ട് z മൈനസ് z 0 ബൈ s സ്ക്വയർ പ്ലസ് z z 0 സ്ക്വയർ റൈസ്ഡ് റ്റു മൂന്ന് ബൈ രണ്ട് പ്ലസ് ഒന്ന് ബൈ രണ്ട് ഗുണം രണ്ട് z പ്ലസ് z 0 ബൈ s സ്ക്വയർ പ്ലസ് z z 0 സ്ക്വയർ റൈസ്ഡ് റ്റു മൂന്ന് ബൈ രണ്ട് ഇവ ക്യാൻസൽ ചെയ്യപ്പെടുന്നു കണക്കു കൂട്ടലുകളുടെ അവസാനം എനിക്ക് ലഭിക്കുന്നത് Ez സമം q ബൈ നാലു പൈ എപ്സിലോൺ 0 ഗുണം z മൈനസ് z 0 ബൈ s സ്ക്വയർ പ്ലസ് z z 0 സ്ക്വയർ റൈസ്ഡ് റ്റു മൂന്ന് ബൈ രണ്ട് എന്നാണ് ഞാൻ Ez മാത്രം കണക്കാക്കുന്നത് എന്തെന്നാൽ ഈ ചാർജിന് അത് മാത്രമേ ആവശ്യമുള്ളൂ ഇത് ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് ആകയാൽ ഇവിടെ ഗ്രേഡിയന്റ് ലംബമായിരിക്കും അതിനാൽ സർഫസിനോടടുത്ത ഫീൽഡ് z ഘടകം മാത്രമായിരിക്കും ഇവിടെ എന്താണ് ചാർജ് ഡെൻസിറ്റി ഞാനിവിടെ ചെറിയ ഒരു ബോക്സ് എടുത്താൽ അതിന്റെ ഈ വശത്തെ ഏരിയ ഇന്റഗ്രൽ ഈ ദിശയിലാണ് പോകുന്നത് ഇത് മെറ്റൽ ആകയാൽ ഉള്ളിലെ ഫീൽഡ് 0 ആയിരിക്കും ഈ വശത്തെ ഏരിയ ഫീൽഡിന് ലംബമായിരിക്കും അതിനാൽ ഇത് സംഭാവന ചെയ്യുന്നില്ല എനിക്ക് ഇ ഡോട്ട് ഡി s എന്നത് Ez ഗുണം ഈ ചെറിയ ഏരിയ ഡെൽറ്റ എ ഇത് ഉൾക്കൊള്ളുന്ന ചാർജ് സിഗ്മ ഡെൽറ്റ എ ബൈ എപ്സിലോൺ 0 ആയിരിക്കും അതിനാൽ സിഗ്മ സമം എപ്സിലോൺ 0 Ez z 0 യിൽ ഇത് ഇവിടെ നൽകിയാൽ s ദൂരത്തിലുള്ള അല്ലെങ്കിൽ x y യിൽ z 0 മൂലമുള്ള സിഗ്മ സമം എപ്സിലോൺ 0 Ez എന്നത് 0 ആയിരിക്കും അപ്പോൾ q ബൈ നാലു പൈ എപ്സിലോൺ 0 ഗുണം മൈനസ് രണ്ട് z 0 ബൈ s സ്ക്വയർ പ്ലസ് z 0 സ്ക്വയർ റൈസ്ഡ് റ്റു മൂന്ന് ബൈ രണ്ട് ഇപ്പോൾ എപ്സിലോൺ 0 ക്യാൻസൽ ചെയ്യപ്പെടുന്നു ഇവ രണ്ടും എനിക്കിവിടെ 2 പൈ നൽകുന്നു അതിനാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും സർഫേസിലെ ചാർജ് സിഗ്മ s സമം മൈനസ് q ബൈ 2 പൈ ഗുണം z 0 ബൈ s സ്ക്വയർ പ്ലസ് z 0 സ്ക്വയർ റൈസ്ഡ് റ്റു മൂന്ന് ബൈ രണ്ട് ആണ് നിങ്ങൾ ചാർജിന്റെ സ്ഥാനത്തു നിന്നും ദൂരത്തേക്ക് പോകുമ്പോൾ s ചെറുതായി വരുന്നു അപ്പോൾ ചാർജ് ഡെൻസിറ്റി കുറഞ്ഞു വരുന്നു